ഇപ്പോൾ നമ്മൾ 1D ഫോർമുലേഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ 2D ഫോർമുലേഷനിലേക്ക് പോവുകയാണ് ഇത് കുറച്ചൂടെ നന്നായി ആശയം മനസ്സിലാക്കിപ്പിക്കും നമ്മൾ 2D യിലേക്ക് നോക്കിയാൽ ഇത് ഇന്റഗ്രൽ ഇക്വേഷൻ മെത്തേഡിലുംഫൈനൈറ്റ് എലമെന്റ് മെത്തേഡുകളിലും ചെയ്തത് പോലെ തന്നെയാണ് എത്ര പോളറിസഷൻ ഉണ്ട് അവിടെ2 പോളെറൈസേഷൻസ് TE ട്രാൻസ്വേഴ്സ് ഉം ™ ട്രാൻസേഴ്സ് മാഗ്നെറ്റിക് ഉം ഏതൊരു ഏകപക്ഷീയമായ പ്രോബ്ലവും ഇവ രണ്ടിന്റെയും ലീനിയർ സൂപ്പർപൊസിഷൻആയി എഴുതാൻ സാധിക്കും ആദ്യം ഇവ രണ്ടിനെയും എനിക്ക് പ്രത്യേകം പ്രത്യേകം പരിഗണിക്കണംസൂപ്പർപൊസിഷന്റെ കാര്യം പിന്നീട് നോക്കാം TE യിൽ ഏതൊക്കെ വരിയബിൾസ്ആണ് ഉള്ളത് TM ഇങ്ങനെ ആണ് നമുക്ക് TE പോളറൈസേഷൻഎടുക്കാം നമുക്ക് നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻMaxwells equation ഇവിടെ എഴുതാം നമ്മുടെ മുമ്പത്തെ അനുഭവം വെച്ച് മാക്സ്വെൽസ് ഇക്വേഷനിൽ Maxwells equation എപ്പോഴും നെ ആയി റീപ്ലേസ് ചെയ്യാനുള്ള ഒരു പ്രലോഭനം ഉണ്ടാവും അത് ഇവിടെ ചെയ്യാൻ പാടില്ല എന്ന് ഓർക്കണം ഇതാണ് FDTD യുടെ മുഴുവൻ ആശയം കാര്യങ്ങൾ ലളിതമാക്കാൻ ഇപ്പോൾ അവിടെ കറണ്ട്ഇല്ല എന്ന് നമുക്ക് അനുമാനിക്കാം അടുത്ത മോഡ്യൂൾസിൽ നമുക്ക് അത് ഉൾക്കൊള്ളിക്കാം TE പോളറൈസേഷനിൽ ഈ രണ്ട് മാക്സ്വെൽസ് ഇക്വേഷൻ maxwells equation ഉപയോഗിച്ച് കുറച്ചു സ്കേലാർ ഇക്വേഷൻസ്കിട്ടുംകാരണം മാത്രമാണ് അൺനോൺസ് നമുക്ക് ഇപ്പോൾ വാക്വം എടുക്കാം ഞാൻ രണ്ടാമത്തെ മാക്സ്വെൽസ് ഇക്വേഷൻ maxwells equation എടുക്കുകയാണ് x കമ്പോണെന്റ് ലേക്ക് നോക്കുക കറണ്ട് 0 ആണെന്ന് അനുമാനിക്കുക ഇത് ആണ് RHS ൽ H ഫീൽഡ് ന്റെ സ്പേഷിയൽ ഡെറിവാറ്റീവ് കിട്ടും അതെന്തായിരിക്കും നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ കഴിയും ഈ ഇക്വേഷന്റെ y ഭാഗം ഒന്നൂടെ ടൈം ഡെറിവാറ്റീവ് കിട്ടും എനിക്ക് ആദ്യത്തെ മാക്സ്വെൽസ് ഇക്വേഷൻ maxwells equation ആണ് ഇനി ബാക്കി ഉള്ളത് അവിടെ നോൺ സീറോ ആയിട്ടുള്ള എത്ര കമ്പോണെന്റ്സ് ഉണ്ട് വിദ്യാർത്ഥി ഒന്ന് അതെ ഒന്ന് മാത്രം കാരണം വെക്ടർ മാത്രം ആണ് അത്കൊണ്ട് z കമ്പോണന്റ് മാത്രം ആണ് എടുക്കേണ്ടത് ഇപ്പോൾ എനിക്ക് ന്റെ സ്പേഷിയൽ ഡെറിവാറ്റീവ് കിട്ടും ടൈം ഡെറിവാറ്റീവ് ന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വിദ്യാർത്ഥി ഒരു മൈനസ് സൈൻ കൂടുതൽ ഉണ്ടല്ലോ വിദ്യാർത്ഥി RHS ൽ എഴുതിയതിൽ അതെ അത് ശരിയാണ് ഇത് കേളിൽ ചെയ്യുന്നതാണ് ഇവിടെ തെറ്റ് വരുത്തിയാൽ കംപ്യൂട്ടേഷൻ മുഴുവൻ പോവും ഇത് പരിഹരിക്കുന്നതിന് മുമ്പ് നമുക്ക്ഇത് രൂപകല്പ്പന ചെയ്യാൻ നോക്കാം എന്റെ വാരിയബിളുകൾ ഇവയാണ് ഇവ സ്പേസ് ലും ടൈമിലും ഡിസ്ക്രിടൈസ് ചെയ്യണം ഡിസ്ക്രിടൈസേഷൻ സ്കീമിനു സ്പേസ് ലെ വ്യത്യസ്ത പോയിന്റ്കളിലും ടൈമിലെ വ്യത്യാസത പോയിന്റ്കളിലും E അറിയേണ്ടതുണ്ട് ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു ഗ്രിഡ് ഉണ്ടാക്കണം ഇത് ഒരു 2 ഡൈമെൻഷണൽ പ്രോബ്ലം ആയത് കൊണ്ട് അൺനോൺസ്ഗ്രിഡിൽ ആണ് ഉള്ളത് ഞാൻ ഗ്രിഡ് ഉണ്ടാക്കുന്നു ഇത് ഒരു ആവർത്തന ഗ്രിഡ് ആണ് ഒരു യൂണിറ്റ് സെൽമാത്രം കാണിക്കാം ഇതിനെ നമുക്ക് എന്ന് വിളിക്കാം ഇതിന്റെ മധ്യത്തിൽ എനിക്ക് എന്ന് വിളിക്കാം ഇവിടെ ആണ് ഞാൻ ചെയ്യാൻ പോവുന്നത് കൂടുതൽ ചെയ്യുമ്പോൾ എന്ത് കൊണ്ടാണ് ഈ അൺനോൺസ് സെല്ലിന്റെ മധ്യത്തിലോ മൂലയിലോ വെച്ച് ഞാൻ നിർവ്വചിക്കാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അവയെ സ്പേസിലേക്ക് സ്റ്റാഗർ പിന്നെ ടൈമിലേക്കും ടൈം പിന്നെ നോക്കാം ഇപ്പോൾ നമുക്ക് സ്പേസ് ഗ്രിഡ് നെ പരിഗണിക്കാം ഈ ഗ്രിഡ് Yee 1996 ൽ നിർദ്ദേശിച്ചതാണ് അതിനാൽ ഇതിനെ Yee സെൽ എന്നും വിളിക്കുന്നു ഇത് ലാറ്റിസ് പോലെയാണ് ഈ പോയ്ന്റ്സ് ന് ചില ഷോർട്ഹാൻഡ് നമ്പേഴ്സ് കൊടുക്കുന്നു ഈ പോയിന്റ് നെ i j എന്ന് വിളിക്കാംഇവിടെ ഉള്ള പോയിന്റ് നെ i1 j1 എന്നും വിളിക്കാം ആളുകൾ ഇതിനെ സ്റ്റെൻസിൽ എന്നും വിളിക്കുന്നുഒന്നിന് തന്നെ പല പേരുകൾ ഉണ്ട് ഇത് സ്പേസിൽ എല്ലായിടത്തും ആവർത്തിക്കുന്നു വിദ്യാർത്ഥി ഗ്രിഡ് എവിടെയാണ് അവസാനിക്കുന്നത് ഗ്രിഡ് ചില പോയിന്റിൽ നേർരേഖയിൽ അവസാനിക്കുന്നു വിദ്യാർത്ഥി അതെ എന്നിട്ട് വിദ്യാർത്ഥി അവിടെ ഉണ്ടാവും ഗ്രിഡ് ബൌണ്ടറീസ് ലൂടെ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ക്രിടൈസ് ചെയ്യും എന്നതാണ് കൺവെൻഷൻ സെന്ററിൽ ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു പ്രായോഗിക കാരണം ചിന്ദിക്കാൻ ആവുമോ എനിക്ക് ഇത് വേറൊരു വഴിയിലും ചെയ്യാം വിദ്യാർത്ഥി ആവർത്തന ഇക്വേഷൻ നമ്മൾ പ്രവർത്തിക്കുന്ന മിക്കവാറും മെറ്റീരിയലുകൾ ഇലക്ട്രിക് മെറ്റീരിയൽ ആണ്മാഗ്നെറ്റിക് മെറ്റീരിയൽ അല്ല അതിനാൽ ഇലക്ട്രിക് ഫീൽഡ് ന്റെ ടാൻജൻഷിയൽ ആവർത്തനത്തെ കുറിച്ച് നല്ലവണ്ണം വിഷമിക്കണം ഗ്രിഡ് ലൈനിൽ ഒരു വാരിയബിൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ ബൌണ്ടറി കണ്ടിഷൻസോട് കൂടി പ്രവൃത്തിക്കാൻ കൂടുതൽ എളുപ്പമാവും ഇത് നിയമം ഒന്നുമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലെക്ട്രിക് ഫീൽഡ് നെ ഡോമെയിൻ ന്റെ സെന്ററിൽ നിർവചിക്കാം മാഗ്നെറ്റിക് ഫീൽഡ് നെ ബൌണ്ടറി യിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം ഇതാണ് കൺവെൻഷൻ ഇനി നമുക്ക് ഒരു നൊട്ടേഷൻ വേണം നമുക്ക് അത് എഴുതാം TM പോളറൈസേഷൻ കൊണ്ട് എന്ത് ചെയ്യും എന്ന് ഞാൻ കാണിച്ചു താരാം വിദ്യാർത്ഥി നിങ്ങൾക്ക് ഉണ്ടാവാം മൂലക്ക് നിങ്ങൾക്ക് ഉണ്ടാവാം വാസ്തവത്തിൽ TM പോളറൈസേഷന്റെ കാര്യത്തിൽ അതാണ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ചില നോട്ടേഷൻ എഴുതാം ഉദാഹരണം ആയി അതായത് ഞാൻ ശരിക്കും വിലയിരുത്തുകയാണ് ഈ നീളമുള്ള RHS എഴുതുന്നതിന് പകരം LHS ൽ ഞാൻ ഈ ഷോർട് ഹാൻഡ് ഉപയോഗിക്കുന്നു പോയ്ന്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പരാമർശിക്കുന്നു ഉദാഹരണമായി E x വിലയിരുത്തുന്നത് ഇന്റിജർ x ൽ അല്ല ഇന്റിജർy ൽ ആണ് അത് കൊണ്ടാണ് ഇനി എവിടെയാണ് നമ്മൾ ഡിസ്ക്രിട്ടയിസ് ചെയ്യുന്നത് ഇതിനെ കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായല്ലോ എങ്ങനെ ആണ് നെ കുറിച്ച് എന്താണ് വിദ്യാർത്ഥി നിങ്ങൾക്ക് എങ്ങനെ ആണ് കിട്ടിയത് എന്ന് മനസ്സിലായില്ല അതെ ചില ഒറിജിൻ ആണ് എന്നത് ഡിസ്ക്രിടൈസേഷൻ ആണ് എന്നെ കോർണറിൽ എത്തിക്കുന്നു ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ക്രിടൈസ് ചെയ്യുന്നിടത്തേക്ക് എത്തിക്കുന്നു ഇത് ലൈനിന്റെ മധ്യത്തിൽ ആണ് ഡിസ്ക്രിടൈസ് ചെയ്യുന്നത് അത് കൊണ്ട് പ്ലസ് ഹാഫ് അത്യാവശ്യം ആണ് അത്പോലെ ന്റെ കേസിൽ ഇത് y പാർട്ടിൽ ആണ് വിദ്യാർത്ഥി നമ്മൾ എക്സ്പ്രഷനിലേക്ക് പോവുമ്പോൾ y കോൺസ്റ്റന്റ് ആവുമോ അതെ അത് മാറില്ല അത് കൊണ്ടാണ് അത് j മാത്രം ആയത് ഞാൻ 2D ഗ്രിഡ് നെ നോഡ് ലൊക്കേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ക്രിടൈസ് ചെയ്യാൻ ആണ് ശ്രമിക്കുന്നത് ഇത് വരെ നമ്മൾ കാണാഞ്ഞത് ടൈം ആണ് ടൈം ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല നമ്മൾ ടൈം നെയും ഡിസ്ക്രിടൈസ് ചെയ്യണം ടൈമിന്റെ നൊറ്റേഷൻ ഇതാണ് അത് സൂപ്പർസ്ക്രിപ്റ്റ് ൽ ആണ് ഇത് നിങ്ങൾ കണ്ടാൽ അതിന്റെ അർഥം സ്പേസിലെ ചില പോയിന്റിൽ ആണ് പിന്നെ അത്കൊണ്ട് സ്പേസ് ഉം ടൈം ഉം വിശദീകരിക്കാൻ നമ്മൾ ഈ ചെറിയ നൊട്ടേഷൻ ഉപയോഗിക്കു ഇപ്പോൾ നമുക്ക് 123 ഇക്വേഷനുകൾ സെൻട്രൽ ഡിഫറെൻസ് ആശയം ഉപയോഗിച്ച് മാറ്റാൻ ശ്രമിക്കാം ആദ്യത്തെ ഇക്വേഷന് വേണ്ടി നമ്മൾ എന്ത് എഴുതും ഇത് ന്റെ ടൈം ഡെറിവാറ്റീവ് ആണ് അങ്ങനെ ഒന്നാമത്തെ ഇക്വേഷൻ ഇങ്ങനെ ആവും ഇതിനെ നമ്മൾ ആയി എഴുതുന്നു ടൈം ഡെറിവാറ്റീവിനെ സൂചിപ്പിക്കാൻ ആണ് അതിന്റെ മേലെ ഡോട്ട് ഇടുന്നത് i ന്റെയും j ന്റെയും അടിസ്ഥാനത്തിൽ കോർഡിനേറ്റ്സ് എന്താണ് വിദ്യാർത്ഥി i പ്ലസ് ഹാഫ് ഇപ്പോൾ നമുക്ക് പാർട്ട് നോക്കാം ന്റെ പാർഷിയൽ ഡെറിവാറ്റീവ് ഏത് കോഓർഡിനേറ്റിന്റെ അടിസ്ഥാനത്തിൽ ആണ് y കോഓർഡിനേറ്റ് RHS ൽ എന്ത് എഴുതും വിദ്യാർത്ഥി എപ്സിലോൺ ഡെൽറ്റ x by 2 മൈനസ് അതെ വിദ്യാർത്ഥി y പ്ലസ് ഡെൽറ്റ നെ i j ന്റെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തി ഇങ്ങനെ എഴുതാം ഇവിടെ ഉം ഉം ഡിസ്ക്രിടൈസേഷൻ ആണ് ഞാൻ പറഞ്ഞു ഇതിന്റെ മേലെ ഒരു ഡോട്ട് ഉണ്ട് എന്ന് അത് പിന്നെ നോക്കാം എനിക്ക് ആദ്യം സ്പേസ് പാർട്ടുകൾ ശരിയായി ചെയ്യണം ഇനി രണ്ടാമത്തെ ഇക്വേഷൻ അത് ലളിതമാണ് ഇതാണ് ന്റെ ടൈം ഡെറിവാറ്റീവ്ഇത് എവിടെയാണ് വിലയിരുത്തുന്നത് ആണ് കോഓർഡിനേറ്റ്സ് എനിക്ക് ഇപ്പോൾ ന്റെ പാർഷിയൽ ഡെറിവാറ്റീവ് ഉണ്ട്x നോട് ബന്ധപ്പെട്ടത് മൈനസ് സൈൻ ഉണ്ട് പക്ഷെ നിങ്ങൾ അത് ശ്രദ്ധിക്കണ്ട മൈനസ് സൈൻ നമുക്ക് ആഗിരണം ചെയ്ത് ഇങ്ങനെ എഴുതാം ഇത് ഓർമിക്കാൻ ഒരു ഷോർട് ഹാൻഡ് സൂത്രം ഉണ്ട് ഈ ഡെറിവേറ്റീവ് കിട്ടാൻമുകളിലുള്ള മൂല്യത്തിൽ നിന്ന് താഴെ ഉള്ള മൂല്യം കുറക്കണം എന്താണ് ഇതുവരെ നമ്മൾ ചെയ്തത് ഏതൊക്കെ പോയ്ന്റ്സ് ആണ് നമ്മൾ പരിഗണിച്ചത് ഈ പോയിന്റ് ആണ് നമ്മൾ പരിഗണിച്ചത് ഫൈനൈറ്റ് ഡിഫറെൻസിൽ ഉൾക്കൊള്ളുന്ന പോയ്ന്റുകൾ ആണ് ഇവ ഇവിടെ ഉള്ള കിട്ടാൻ ഇവിടെ ഉള്ള ഈ ചുവപ്പും നീലയും ഒരുമിച്ച് ഉൾപ്പെട്ടിരിക്കുന്നു ഈ നീലയും ചുവപ്പും E x തന്നിരിക്കുന്നു ആദ്യത്തെതിൽ നോക്കുക ന്റെ ടൈം ഡെറിവേറ്റീവ് ഇവിടെ ഉള്ള ഇതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഏതൊക്ക മൂല്യങ്ങൾ ആണ് കുറക്കപ്പെടുന്നത് ഇവിടെ ഉള്ള ഉം ഇവിടെ ഉള്ള ഉം ഞാൻ ഡിഫറെൻസ് എടുക്കുന്നതുംമൂല്യത്തെ അപ്രോകെസിമേറ്റ് ചെയ്യുന്നതും ഇടയിൽ ഉള്ള ഗ്രിഡ് പോയിന്റിൽ വെച്ചാണ് അത് കൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് tനെ ഡിസ് ക്രിടൈസ് ചെയ്യുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ ഇത് ഇടത്തും വലത്തും ആരംഭിച്ചു അവയുടെ ഡിഫറെൻസസ് എനിക്ക് ഇത് തന്നു വിദ്യാർത്ഥി നിങ്ങൾ ഈ രണ്ട് മീഡിയവും എടുത്തോ അതെ ഞാൻ വാക്വം എടുത്തു വിദ്യാർത്ഥി വാക്വം ഇവിടുണ്ട് അത് ഒരു വാക്വം ആണ് എന്താണ് ബാക്കി ഇക്വേഷൻ 3ഇടത് വശം ലളിതമാണ് എന്താണ് കോർഡിനേറ്റ്സ് ഇനി ഞാൻ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതണം വിദ്യാർത്ഥി സ്പേസ് ന്റെയും ന്റെയും സ്പേസ് ഡെറിവേറ്റീവ്സിന്റെ ഇതാണ് ആദ്യത്തെ term ഇതാണ് രണ്ടാമത്തേത് ആദ്യത്തെ ടെർമ് ആണ് വിദ്യാർത്ഥി E x ഇവിടെ നോക്കുക ഞാൻ അപ്രോക്സിമേറ്റ് ഡെറിവേറ്റീവ് കണ്ട് പിടിക്കാനുള്ള ശ്രമത്തിൽ ആണ് ആദ്യത്തെ ടെർമ് സ്പേസ് ലെ ഡെറിവേറ്റീവ് ആണ് അപ്പോൾ ആദ്യത്തെ ടെർമ് എന്താവും വിദ്യാർത്ഥി E x നിങ്ങൾ ഈ ഗ്രിഡ് മനസ്സിൽ ഓർമിച്ചാൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ എന്തിനാണ് നെ ഇങ്ങനെ ഒരു രീതിയിൽ സ്റ്റാഗർ ചെയ്തത് എന്ന കാര്യത്തിൽ അഭിനന്ദിക്കാം കാരണം മൂന്ന് ഇക്വേഷനുകളും ശരിയായ പോയിന്റിൽ അപ്രോക്സിമേഷൻ തരുന്നു ഇവിടെ ഉള്ള ഈ ഇക്വേഷൻ നോക്കുക വലത് വശം ഇങ്ങനെ ആണ് ഇത് ന്റെ കൃത്യമായ കണക്കാണ് ഏത് പോയിന്റിൽ വിദ്യാർത്ഥി z നോട്ട് അതായത് 2 പോയ്ന്റ്സ് ന്റെ ആവറേജ് അത്കൊണ്ടാണ് ഈ സ്റ്റാഗേർഡ് ഗ്രിഡ് തിരഞ്ഞെടുത്തത് ഞാൻ x ന്റെ അടിസ്ഥാനത്തിൽ ന്റെ സ്പേഷിയൽ ഡെറിവേറ്റീവ് എടുത്താൽആ രണ്ട് സ്ഥലങ്ങളുടെ നടുവിലെ പോയിന്റിൽ ആണ് അപ്രോക്സിമേഷന് സാധുത ഉള്ളത് ആ സ്ഥലമാണ് ഞാൻ വരാൻ തിരഞ്ഞെടുത്തത് ഞാൻ ഫൈനൈറ്റ് ഡിഫറെൻസസ് എടുക്കുമ്പോൾ എല്ലാം മറ്റൊന്നിന്റെ നടുവിലുള്ള പോയിന്റിൽ ആയിരിക്കും ഇതാണ് Yee സെല്ലിന്റെ ഉപയോഗം ഗ്രിഡ് ന്റെ മധ്യത്തിലുള്ള പോയിന്റിൽ അല്ല ഗ്രിഡ് ലൈനിന്റെ മധ്യത്തിൽ ഉള്ള പോയിന്റിൽ ആണ് സെല്ലിന്റെ മധ്യത്തിൽ അല്ല അതെ നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻ Maxwells equation എല്ലായിടത്തും മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് അതിനെ ന്യൂമറിക്കലി സോൾവ് ചെയ്യണം അത് കൊണ്ട് നമ്മളതിനെ ബലം ഉപയോഗിച്ച് ഡിസ്ക്രിടൈസ് ചെയ്തു നിങ്ങൾ പറയുന്നു എനിക്ക് ൽ മാത്രമേ അറിയൂ എന്ന് i j ൽ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യും വിദ്യാർത്ഥി ആവറേജിനെ ഡിസ്ക്രിടൈസ് ചെയ്യണം ഡിസ്ക്രിടൈസ് ചെയ്യണം രണ്ട് വഴികൾ ഉണ്ട് എനിക്ക് വേണമെങ്കിൽ ഗ്രിഡ് സൈസിന്റെ പകുതിയിൽ ഡിസ്ക്രിടൈസ് ചെയ്യാൻ കഴിയും ആ പോയിന്റിലും എനിക്ക് കിട്ടും മികച്ച മാർഗം ആവറേജ് ആയിരിക്കും രണ്ട് വശത്തും എനിക്ക് അറിയാം ഇത് രണ്ടിന്റെയും ആവറേജ് എടുത്താൽ എനിക്ക് i jലെ ഇലക്ട്രിക് ഫീൽഡ് ന്റെ അപ്രോക്സിമേറ്റ് മൂല്യം കിട്ടും എങ്ങനെ ഡിസ്ക്രിടൈസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം വിദ്യാർത്ഥി എന്തായിരിക്കും ദിശ വിദ്യാർത്ഥി E x E y അവ വിദ്യാർത്ഥി ദിശ അവിടെ ഒരു ദിശ ഇല്ല അത് ലൈനിലൂടെ ആണ് ന് 5 എന്ന വാല്യൂ വിചാരിക്കുക x ആക്സിസിൽ പ്ലസ് ആയിരിക്കും മൈനസ് കിട്ടിയാൽ അത് പോയിന്റ് ചെയ്യുന്നത് എതിർ ദിശയിൽ ആയിരിക്കും ഇത് സ്കേലാർ ആണ് വെക്ടർ അല്ല കാരണം നേരത്തെ സ്കേലാർ ആണ് അത്കൊണ്ട് ന്റെ x കമ്പോണെന്റ് സ്കേലാർ ആണ് അത് പ്ലസ് x ൽ അഥവാ മൈനസ് x ൽ പോയിന്റ് ചെയ്യും വിദ്യാർത്ഥി ഇവിടെ ആണ് പോയിന്റ് എന്ന് പറയാമോ അതെ വിദ്യാർത്ഥി നിങ്ങൾ അത് ആയ കാണണം അതെ എനിക്ക് i j വെക്ടറിൽ ൽ ഇലക്ട്രിക് ഫീൽഡ് ന്റെ മൂല്യം കണ്ട് പിടിക്കണം എന്ന് വിചാരിക്കുക എന്ത് ചെയ്യും വിദ്യാർത്ഥി ആവറേജ് x കമ്പോണെന്റ്സിന്റെ അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ x പാർട്ടിന്റെ ആവറേജ് എടുക്കുക y കമ്പോണെന്റ്സ് അഥവാ y പാർട്ടിന്റെ ആവറേജ് എടുക്കുക അനന്തരം നിങ്ങൾക്ക് വെക്ടർ കിട്ടും വിദ്യാർത്ഥി ആവറേജ് പോയ്ന്റ്സ് കാരണം അതെ ഉദാഹരണം ആയി എന്താണ് ഇവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് വിദ്യാർത്ഥി ഗ്രിഡിൽ എവിടെ എങ്കിലും എവിടെയെങ്കിലും വിദ്യാർത്ഥി ഗ്രിഡിൽ നിങ്ങൾക്ക് ഗ്രിഡിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും വേണം ഇപ്പോൾ എനിക്ക് ഈ വെക്ടറിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടു പിടിക്കണമെങ്കിൽ ഞാൻ ഈ ന്റെയും ഈ ന്റെയും ആവറേജ് ആയി x കമ്പോണെന്റ് നെ എടുക്കണം അത് എനിക്ക് x പാർട്ട് തരും വിദ്യാർത്ഥി നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത പോയ്ന്റുകൾ അവിടെ ഉണ്ട് അതെനമുക്ക് ഘട്ടം ഘട്ടം ആയി നോക്കാം ഈ ഗ്രിഡ് പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഈ ന്റെയും ഈ ന്റെയും ആവറേജ് എടുക്കും അത് രണ്ടാമത്തെ കമ്പോണെന്റിലേക്ക് പോവും ഇത് ആദ്യത്തെ കമ്പോണെന്റിലേക്കും ഇനി എന്താണ് വെക്ടർ E ഇത് ഓരോ ഗ്രിഡ് പോയിന്റിലും എനിക്ക് ആവർത്തിക്കാൻ കഴിയും അടിസ്ഥാനപരമായി ഞാൻ ഇത് ചതുര ഗ്രിഡിൽ ആണ് ചെയ്തത് എല്ലാ നോഡ് ലൊക്കേഷനിലും എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് കിട്ടി ഇതിലും കൃത്യമായി കിട്ടണമെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം വിദ്യാർത്ഥി സർ പക്ഷെ നിങ്ങൾക്ക് സെല്ലിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും വേണംഅല്ലെ വിദ്യാർത്ഥി മധ്യത്തിലും നമുക്ക് സാധിക്കും നിങ്ങൾക്ക് വേണ്ട കൃത്യമായ ലൊക്കേഷനിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് അറിയണം വിദ്യാർത്ഥി അതും നമുക്ക് ആവറേജ് എടുക്കാം അതെ ആവറേജ് എടുക്കാം വിദ്യാർത്ഥി പക്ഷെ മറ്റേതെങ്കിലും പോയന്റുകളിൽ ഏത് പോയിന്റ് വേണമെങ്കിലും നോക്കാം ആ ഗണിതശാസ്ത്ര നടപടിക്രമത്തിന് എന്ത് വിളിക്കും നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എല്ലാർക്കും അറിയാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഉള്ളിലുള്ള ഏത് പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം എന്താണ് ആ സാങ്കേതിക വാക്ക് ഇന്റർപോളേഷൻ നിങ്ങൾക്ക് ഗ്രിഡ് ലെ മൂല്യങ്ങൾ അറിഞ്ഞാൽ കുറച്ചൂടെ കൃത്യത വേണമെങ്കിൽ ഇന്റർപോളേറ്റ് ചെയ്യുക യഥാർത്ഥത്തിൽ ഇത് ശരിക്കുമുള്ള പ്രശ്നം അല്ല കാരണം നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ന്റെ ഡിസ്ക്രിടൈസേഷൻ ചെറുതാണ് അത് ലാമ്പ്ഡ ബൈ 10 ന്റെയും ലാമ്പ്ഡ ബൈ 20 യുടെയും ഓർഡറിൽ ആണ് വരുന്നത് അവിടെ വേവ് ലെങ്ത്ത് ലാമ്പ്ഡ ആണ് ഉദാഹരണം ആയിഎന്റെ കയ്യിൽ 1GHz ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങളുടെ മൊബൈൽ ഫോൺ 1 GHz ൽ ആണ് പ്രവർത്തിക്കുന്നത് അതായത് 30 cm അത്കൊണ്ട് നിങ്ങളുടെ ഡിസ്ക്രിടൈസേഷൻ 30cm ആണ് അതിനെ 10 കൊണ്ട് ഹരിച്ചാൽ 3cm ആവും ചിലപ്പോൾ അതിലും ചെറുതാവും അതായത് 1cm നിങ്ങൾ എന്തായാലും ഇലക്ട്രിക് ഫീൽഡ് ആണ് നിർണ്ണയിക്കുന്നത് അത് ചെറിയ ലൊക്കേഷനിൽ വലുതായിട്ട് വ്യത്യാസം ഉണ്ടാവില്ല ഇത് FDTD മെത്തോഡിന്റെ ഒരു പോരായ്മ ആണ് കാരണം നിങ്ങൾക്ക് എല്ലാം വളരെ കൃത്യമായി ഡിസ്ക്രിടൈസ് ചെയ്യേണ്ടതാണ് അത്കൊണ്ടാണ് ഇവയെ ബ്രൂട്ട് ഫോഴ്സ് മെത്തോഡ് എന്ന് പറയുന്നത് നിങ്ങൾ സ്പേസ് ലും ടൈമിലും ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് എല്ലാം നിർണ്ണയിക്കേണ്ടതായി വരും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതും ഉദാഹരണം ആയി റഡാർ ക്രോസ്സ് സെക്ഷൻ എടുക്കാം എന്താണ് എനിക്ക് അറിയേണ്ടത് ടാൻജെൻഷിയൽ കറണ്ട് അതിനാൽ എല്ലായിടത്തും ഉള്ള ഫീൽഡ് കണ്ടു പിടിക്കാൻ എനിക്ക് ഹ്യൂജെൻസ് പ്രിൻസിപിൾ പ്രയോഗിക്കാൻ കഴിയും പക്ഷെ നിങ്ങൾ FDTD ചെയ്യുമ്പോൾ സ്പേസിൽ എല്ലായിടത്തും ഉള്ള ഫീൽഡുകൾ കണ്ട് പിടിക്കേണ്ടി വരുന്നു എഡ്ജസിൽ ഉള്ളത് പുറത്തേക്ക് എടുക്കാൻ അതായത് ഒരു ചെറിയ കാര്യം കിട്ടാൻ ഒരു പാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു ടൈം ഡെറിവേറ്റീവ് നെ കുറിച്ച് എന്താണ് അതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയാൻ പോവുന്നത് ഇവിടെ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു പ്രധാന പോയിന്റ് പകുതി ഗ്രിഡ് കൊണ്ട് സ്റ്റാഗർ ചെയ്യുക എന്നതാണ് വിദ്യാർത്ഥി ഡെൽറ്റ x മുകളിലുള്ളത് മൈനസ് താഴെയുള്ളത് ഇടത് വശം മൈനസ് വലതു വശം ഇതാണ് പ്രധാനം